ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ക്ലാസുകളിലായി ആൻറിനയുടെ വിശകലനത്തെ കുറിച്ച് ചർച്ച നടത്തുകയും വ്യത്യസ്തങ്ങളായ അപ്പർച്ചർ ആന്റിനകൾ കണ്ടുപിടിക്കുകയും ചെയ്യുകയായിരുന്നു അവസാനമായി നമ്മൾ കണ്ടത് ഒരു സ്ലോട്ട് ആന്റിനയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു തുറന്നിരിക്കുന്ന വേവ്ഗൈഡ് ആന്റിനയാണ് തുറന്നിരിക്കുന്ന വേവ്ഗൈഡ് ആൻറിന എന്നുപറഞ്ഞാൽ അത് ഗ്രൌണ്ട് പ്രതലത്തിന് മുകളിലായി ഉണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ട് ഇതാണ് ഗ്രൌണ്ട് പ്രതലം ഞാൻ ആദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതട്ടെ ഇതാണ് എന്റെ x അക്ഷം ഇതാണ് എന്റെ y അക്ഷം ഇതാണ് കേന്ദ്രം പഴയതുപോലെ ഈ അളവ് a ഹരിക്കണം 2 ഉം ഇത് b ഹരിക്കണം 2 ഉം ആണ് ഇവിടെ മണ്ഡലം എന്നത് കൊസൈനിൻ്റെ വ്യതിയാനങ്ങളാണ് വേവ്ഗൈഡിന് ഉൾഭാഗത്തുള്ള TE10 മോഡുകളുടെ ഉത്തേജനം ആണ് ഇത് അതായത് z പൂജ്യത്തെക്കാൾ കുറവായതു മുതൽ TE10 മോഡുള്ള ഒരു ട്രാൻസ്മിഷൻ വേവ്ഗൈഡ് ആയിരുന്നു ഇത് അതുകൊണ്ടാണ് അതിൻറെ ഫീൽഡ് പാറ്റേണിനെ അപ്പർച്ചർ ഫീൽഡ് Ea y ദിശയിൽ ആണെന്നും അതിന് TE10 മോഡ് പാറ്റേൺ ഉണ്ടെന്നും അതിൻ്റെ വില മൈനസ് a ഹരിക്കണം 2 x a ഹരിക്കണം 2 മൈനസ് b ഹരിക്കണം 2 y b ഹരിക്കണം 2 എന്നിവയ്ക്ക് കോസ് പൈ x ഹരിക്കണം a എന്നും നമ്മൾ അനുമാനിച്ചത് അതുകൊണ്ട് Mx എന്താണെന്ന് നമ്മൾക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും ഇത് y ദിശയിലും n z ദിശയിലും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് M x ദിശയിലായിരിക്കും അതുകൊണ്ട് Mx എന്നത് ഈ മേഖലയ്ക്ക് ഉള്ളിൽ 2 E0 കോസ് പൈ x ഹരിക്കണം a എന്ന് എനിക്ക് എഴുതാൻ കഴിയും പക്ഷേ ഞാൻ അത് ഇവിടെ എഴുതുന്നില്ല മുൻപത്തെ ഒരു ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതുപോലെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സ്ഥിരമായ ഭാഗമുണ്ട് പതിവായി ഇത് ഇവിടെ വരുന്നതുകൊണ്ട് ആ സ്ഥിരമായ ഭാഗത്തെ ഒരു സ്ഥിരാങ്കം C എന്ന് നമുക്ക് വിളിക്കാം C എന്നത് j ab k E0 e പവർ മൈനസ് j kr ഹരിക്കണം 2 പൈ r ആണ് ഇത് എല്ലായ്പ്പോഴും വരുന്നതുകൊണ്ട് ഇതിന് നമ്മൾ C എന്ന് കൊടുത്തു അതുകൊണ്ട് ഞാൻ ഇതിനോടകം പറഞ്ഞതുപോലെ ആ സൂത്രവാക്യങ്ങളുടെ സഹായത്തോടെ ഇതിൻറെ പദങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് Eθ എന്നത് മൈനസ് പൈ ഹരിക്കണം 2C സൈൻ ഫൈ എന്ന് എളുപ്പത്തിൽ എഴുതാൻ കഴിയും ഇവിടെ ആകെയുള്ള ഒരു മാറ്റം കോസ് X ഹരിക്കണം X വർഗ്ഗം മൈനസ് പൈ ഹരിക്കണം 2 ഈ പദങ്ങൾ മുഴുവന്റെയും വർഗ്ഗം ഗുണിക്കണം സൈൻ Y ഹരിക്കണം Y ആണ് X Y എന്നിവയുടെ നിർവചനങ്ങൾ ഇതിനോടകം കണ്ട യൂണിഫോം പ്രകാശനത്തിലെ അതേ നിർവചനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നോക്കു ആകെ ഇവിടെ സൈൻ X ഹരിക്കണം X ന് പകരം അതിനർഥം സൈൻ ഫങ്ഷൻ ഇതാണ് പ്രകാശനം കാരണമുള്ള പുതിയ കാര്യം അതോടൊപ്പം Eφ എന്നത് മൈനസ് പൈ ഹരിക്കണം 2 C കോസ് തീറ്റ കോസ് ഫൈ കോസ് X ഹരിക്കണം X വർഗ്ഗം മൈനസ് പൈ ഹരിക്കണം 2 ഈ പദങ്ങൾ മുഴുവനെയും വർഗ്ഗം സൈൻ Yഹരിക്കണം Y ആയിരിക്കും അതുപോലെ Hθ എന്നത് മുൻപത്തെ പോലെ തന്നെ മൈനസ് Eφ ഹരിക്കണം η യും Hφ എന്നത് പ്ലസ് Eθ ഹരിക്കണം η യും ആണ് ഇനിയിപ്പോൾ നിങ്ങളുടെ E പ്രതലം എന്തായിരിക്കും E പ്രതലത്തിന് നിങ്ങൾക്ക് ആ അതേ കാര്യവും ഇതും ഉണ്ട് നമ്മൾ E പ്രതലത്തിൽ ഉള്ളതുകൊണ്ട് y എന്നത് പൈ ആകുമ്പോൾ നമുക്ക് ആ നൾ കിട്ടും അതുകൊണ്ട് നൾ എന്നത് സൈൻ ഇൻവേർസ് ലാംഡാ ഹരിക്കണം b എന്ന തീറ്റ ആയിരിക്കും അതുപോലെ θ3dB എന്നത് ഡിഗ്രിയിൽ 57 3 സൈൻ ഇൻവേർസ് 0 443 ഹരിക്കണം b ഹരിക്കണം ലാംഡാ എന്നായിരിക്കും θS എന്നത് സൈൻ ഇൻവേർസ് 2 ഗുണിക്കണം 4 5 ഹരിക്കണം 2 പൈ b ഹരിക്കണം ലാംഡായും സൈഡ് ലോബ് ലെവൽ എന്നത് വീണ്ടും അതേ മൈനസ് 13 26dB യും ആയിരിക്കും ഫൊറിയർ ട്രാൻസ്ഫോം രീതിയിൽ നമ്മൾ ഈ പാറ്റേൺ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുൻപത്തെ ഉദാഹരണത്തിൽ അതുപോലത്തെ വ്യത്യസ്തങ്ങളായ പല വിലകളും നമ്മൾ കണ്ടു സിങ്ക് വിലകളും പ്രധാനപ്പെട്ടതാണ് കാരണം സിങ്ക് വിലകൾ ഇവിടെ ആവശ്യമുണ്ട് ദയവായി ശ്രദ്ധിക്കുക Y 1 391 ആകുമ്പോൾ Sinc 0 707 ആകും അതുപോലെ Y 4 494 ആകുമ്പോൾ Sinc മൈനസ് 0 271 ആകും അതുകൊണ്ട് നമുക്ക് ഈ വിലകൾ ആവശ്യമുണ്ട് ഓർക്കുക നിങ്ങൾ മോഡുലസ് എടുക്കുകയാണെങ്കിൽ ഇവ അടുത്തത് രണ്ടാമത്തെ മാക്സിമം ആയിത്തീരും അതുകൊണ്ടാണ് ഈ വിലകൾ നമുക്ക് ആവശ്യമായി വരുന്നത് ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് വേറൊരു ഉദാഹരണത്തിൽ പറയാം ഞാൻ H പ്രതലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതട്ടെ H പ്രതലം ലാംഡായെക്കാളും വലുതാണ് അതുകൊണ്ട് ആദ്യത്തെ നൾ ബീം വിഡ്ത്ത് ഡിഗ്രിയിൽ 171 9 ഹരിക്കണം a ഹരിക്കണം ലാംഡാ ആയിരിക്കും മുൻപ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ കാര്യം കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ആദ്യത്തെ നൾ ബീം വിഡ്ത്ത് അത് ഏകദേശം 180 ഡിഗ്രി പോലെ വളരെ വിശാലമാണ് അതുപോലെ ഹാഫ് പവർ ബീം വിഡ്ത്ത് ഡിഗ്രിയിൽ 68 8 ഹരിക്കണം a ഹരിക്കണം ലാംഡാ ആയിരിക്കും വശങ്ങളിലെ ആദ്യത്തെ സൈഡ് ലോബ് ലെവൽ മൈനസ് 23 dB ആയിരിക്കും റിഫ്ലക്ടർ ആൻറിനയുടെ കാര്യത്തിൽ ഇതേ കാര്യം നമ്മൾ അവകാശപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ അത് തെളിയിക്കപ്പെടുകയാണ് നമുക്ക് ആംബ്ലിറ്റ്യൂട് ടേപ്പർ സൈഡ് ലോബ് ലെവൽ 13dB ഉള്ളതിൽ നിന്നും കുറഞ്ഞുവരികയാണ് 23dB ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ആംബ്ലിറ്റ്യൂട് ടേപ്പർ ഉണ്ടെങ്കിൽ അതിൻറെ നേട്ടം ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ആംബ്ലിറ്റ്യൂട് ടേപ്പർ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് അതുപോലെ ഡയക്റ്റിവിറ്റയ്ക്കും ഇത് ചെയ്യേണ്ടതുണ്ട് Pr എങ്ങനെ കണ്ടു പിടിക്കാം എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പറയാം Pr എന്നത് അപ്പർച്ചർ ഫീൽഡ് മൈനസ് വേവ് ഇംപിഡൻസ് E0 വർഗ്ഗം കോസ് വർഗ്ഗം പൈ x ഹരിക്കണം a dxdy ആണ് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ab ഹരിക്കണം 4 TE10 മോഡ് ഫീൽഡിന്റെ വേവ് ഇംപിഡൻസ് ഗുണിക്കണം E0 വർഗ്ഗം എന്ന് കിട്ടും TE10 മോഡിന്റെ കാന്തികമണ്ഡലം എഴുതുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടും വീണ്ടും ഇതാണ് Pr തീറ്റ സമം പൂജ്യമായിരിക്കുമ്പോൾ dP ഹരിക്കണം d ഒമേഗ അവിടെ നിങ്ങളുടെ X ഉം Y ഉം പൂജ്യമാണ് ഇവിടെ Eθ സൈൻ ഫൈ ആണ് അതുപോലെ ഇക്കാര്യത്തിൽ Eφ കോസ് ഫൈ യ്ക്ക് ആനുപാതികം ആയിട്ടാണ് അതുകൊണ്ട് Eθ വർഗ്ഗം അതുപോലെ Eφ വർഗ്ഗം ഇവയ്ക്ക് ഫൈയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വ്യതിയാനങ്ങളും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും dP ഹരിക്കണം d ഒമേഗ തീറ്റ 0 അത് r വർഗ്ഗം ഹരിക്കണം 2η Eθ വർഗ്ഗം തരുമെന്ന് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് 2E0 വർഗ്ഗം ഹരിക്കണം η പൈ വർഗ്ഗം ലാംഡാ വർഗ്ഗം a വർഗ്ഗം b വർഗ്ഗം എന്ന് ആയിത്തീരും അതുകൊണ്ട് ഡയറക്റ്റിവിറ്റി 4 പൈ dP ഹരിക്കണം dഒമേഗാ തീറ്റ 0 ഹരിക്കണം Pr ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 64 ഹരിക്കണം ലാംഡാ ത്രിവർഗ്ഗം β10 ab എന്ന് കിട്ടും TE10 മോഡിൻ്റെ yw വേവ് ഇംപിഡൻസ് എന്താണ് അത് β10 ഹരിക്കണം k η ആണ് നിങ്ങൾ ഞങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻസ് വേവ്ഗൈഡ്സ് എന്നതിനെ സംബന്ധിച്ച എൻപിടിഎൽ അധ്യാപനം കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ പദങ്ങൾ പറയുന്നുണ്ട് അതുപോലെ β10 ൻ്റെ വില എന്നത് k വർഗ്ഗം മൈനസ് പൈ വർഗ്ഗം ഹരിക്കണം a വർഗ്ഗം ഈ മുഴുവൻ പദങ്ങളുടെയും പവർ ഒന്ന് ഹരിക്കണം രണ്ട് എന്നതാണ് അത് പൈ ഹരിക്കണം 4 ഹരിക്കണം ലാംഡാ വർഗ്ഗം മൈനസ് 1 ഹരിക്കണം a വർഗ്ഗം ഈ മുഴുവൻ പദങ്ങളുടെയും പവർ ഒന്ന് ഹരിക്കണം രണ്ട് എന്ന് ആയിത്തീരും വീണ്ടും a എന്നത് ലാംഡായെക്കാളും വളരെ വലുതാണെങ്കിൽ β10 എന്നത് ഏകദേശം 2 പൈ ഹരിക്കണം ലാംഡായും എന്നിട്ട് D എന്നത് 32 ഹരിക്കണം പൈ ലാംഡാ വർഗ്ഗം ab യും ആയിരിക്കും അതുകൊണ്ട് അതെനിക്ക് 8 ഹരിക്കണം പൈ വർഗ്ഗം 4 പൈ ഹരിക്കണം ലാംഡാ വർഗ്ഗം ab എന്ന് എഴുതാം ഇനിയിപ്പോൾ നിങ്ങൾ നോക്കൂ എനിക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും എന്താണ് എൻറെ ഭൌതികമായ വിസ്തീർണം എന്ന് ഭൌതികമായ വിസ്തീർണ്ണം ab ആണ് പക്ഷേ എന്താണ് എൻറെ Aem ഇവിടെ ഒന്നു നോക്കൂ Aem എന്നത് 8 ഹരിക്കണം പൈ വർഗ്ഗം ഗുണിക്കണം ab ആണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ Aem എന്ന ഘടകം ഉപയോഗിച്ച് ഞാൻ ഗുണിച്ചു ഭൌതികമായ വിസ്തീർണ്ണം ഗുണിക്കണം 8 ഹരിക്കണം പൈ വർഗ്ഗം എന്ന് ഞാൻ ഗുണിച്ചാൽ അത് 0 8 ആണെന്ന് ഉറപ്പാണ് കാരണം പ്രകാശനം യൂണിഫോം ആയിട്ടല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനു ഞാൻ കൊടുക്കുന്ന പിഴയാണ് പരമാവധി പ്രയോജനം ഉള്ള വിസ്തീർണ്ണം ഭൌതിക വിസ്തീർണ്ണത്തിനെക്കാളും കൂടുതലാകാൻ പാടില്ല എന്നുള്ളത് ഇത് ഇതിൻ്റെ 80 ശതമാനം ആണ് അതുകൊണ്ട് ഇവിടെ അപ്പർച്ചർ എഫിഷൻസി എന്നത് അടിസ്ഥാനപരമായി ഈ 8 ഹരിക്കണം പൈ വർഗ്ഗവും അത് 0 81 ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് അടുത്തിരിക്കുന്നു ദയവായി ഓർമിക്കുക ഗ്രൌണ്ട് പ്രതലം നമുക്ക് ഇല്ലെങ്കിലും തുറന്നിരിക്കുന്ന വേവ്ഗൈഡ് അല്ലെങ്കിൽ ഏതുതരത്തിലുള്ള ഉള്ള ആൻറിനയെയും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് മാഗ്നെറ്റിക് കരണ്ട് മാത്രമേ ഉള്ളൂ എന്ന സഹായം അവിടെ നമുക്ക് ലഭിക്കില്ല കാരണം അവിടെ മാഗ്നെറ്റിക് കരണ്ടിനെയും ഇലക്ട്രിക് കരണ്ടിനെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതായത് Ms അവിടെ ഉണ്ട് Ms എന്നത് മൈനസ് n ക്രോസ് Ea യും Js എന്നത് n ക്രോസ് Ha ആണ് Ha നമുക്ക് അറിയാം J നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിന് ഇതു കാരണമുള്ള മണ്ഡലങ്ങളെ കണ്ടുപിടിക്കുകയും അതിനുശേഷം അവയുടെ ആകെത്തുക കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതായത് ആ n തീറ്റ n ഫൈ 1 തീറ്റ 1 ഫൈ തുടങ്ങിയ എല്ലാം അവിടെ ഉണ്ടായിരിക്കും അതാണ് ആകെയുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാം നിങ്ങൾ വിഷമപ്രശ്നത്തെ ആവർത്തിക്കും ഒരേ വിഷമപ്രശ്നം ആവർത്തിക്കുന്നതായി നിങ്ങൾ കണ്ടാലും അതിനർത്ഥം ഇത് ഗ്രൌണ്ട് പ്രതലം ഇല്ലാത്ത തുറന്നുവച്ചിരിക്കുന്ന വേവ്ഗൈഡ് ആണ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്യന്തികമായി Eθ യും Eφ യും 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് ആനുപാതികം ആയിട്ട് ആണെന്ന് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാം അനന്തമായ ഗ്രൌണ്ട് പ്രതലത്തിൽ ഉയർന്നിരിക്കുന്ന റെക്ടാൻഗുലർ വേവ്ഗൈഡിന്റെ ഈ ഫീൽഡ് പാറ്റേണിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ കഴിയും a എന്നത് 3 ലാംഡാ ആണ് b എന്നത് 3 ലാംഡാ ആണ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കാണും ഈ പ്രതലങ്ങൾ ഇതിനോടകം നമ്മൾ കണ്ടതാണ് ഇതാണ് വശങ്ങളിലുള്ള ആദ്യത്തെ ലോബ് ഇതിന് താരതമ്യേന പരമാവധി മാഗ്നിറ്റ്യൂട് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്താണെന്ന് നിങ്ങൾ കാണും ഇതാണ് ഹാഫ് പവർ ബീം വിഡ്ത്ത് എങ്ങനെയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് ആദ്യത്തെ നൾ ബീം വിഡ്ത്ത് വശങ്ങളിലുള്ള ആദ്യത്തെ ലോബ് ബീം വിഡ്ത്ത് മുതലായവ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ H പ്രതലം ബീം വിഡ്ത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം സ്ക്വയർ അപ്പർച്ചറിൻറെ ബീം എഫിഷൻസിയും ഹാഫ് കോൺ ആങ്കിളും തമ്മിലുള്ള ബന്ധം മുതലായവയും കാണിച്ചിട്ടുണ്ട് ഇത് സർക്കുലർ അപ്പേർച്ചറിൻ്റെയും അതോടൊപ്പം സർക്കുലർ വേവ്ഗൈഡിന്റെയും ആണ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡൊമിനന്റ് ഫീൽഡ് TE10 മോഡ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇതൊരു സ്ഥായിയായ മണ്ഡലമായതുകൊണ്ട് അതിന് സ്ഥായിയായിട്ട് ഇത് ഇക്കാര്യം ആകും സർക്കുലർ വേവ്ഗൈഡിൻ്റെ കാര്യത്തിൽ TE11 മോഡാണ് ഡൊമിനന്റ് മോഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തുറന്നുവച്ചിരിക്കുന്ന സർക്കുലർ വേവ്ഗൈഡ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും പാറ്റേൺ ഇതാണ് ആണ് ബീം വിഡ്ത്ത് H പ്രതലം ബീം വിഡ്ത്ത് ഇതാണ് ബീം എഫിഷ്യൻസി മുതലായവ ഇനി നമ്മൾ അവസാനത്തെ ഉദാഹരണം കാണുകയാണ് അത് മൈക്രോ സ്ട്രിപ്പ് ആൻറിനയാണ് ഇതിൻറെ യോജിച്ച കാര്യങ്ങൾ കാരണം ഇത് സാമാന്യം ജനപ്രിയമായ ഒന്നാണ് എനിക്ക് ഒരു പ്രതല രൂപത്തിലുള്ള ആകൃതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേവ്ഗൈഡുകൾ ആയി ഇടാൻ കഴിയും ലളിതമായ കാര്യങ്ങൾക്കു പകരം ഭാരമുള്ളതും ലോഹങ്ങൾ ഉള്ളതുമായ വേവ്ഗൈഡുകളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു മൈക്രോസ് സ്ട്രിപ്പ് ആന്റിന ഉപയോഗിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ആകെ ആവശ്യം ഒരു ഡൈയിലക്ട്രിക്കും അവ രണ്ടും പ്രതലരൂപത്തിലുള്ള ആകൃതിയിൽ ആയിരിക്കുകയും വേണം പക്ഷേ യഥാർത്ഥത്തിൽ ആൻറിന എന്ന രീതിയിൽ പരിഗണിച്ചാൽ മൈക്രോസ്ട്രിപ്പ് ആൻറിന വളരെ മോശമായ ഒരു ആൻ്റിന ആണ് ഇത് വളരെ കാര്യക്ഷമത കുറഞ്ഞതും പവർ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് വളരെ കുറഞ്ഞതും അല്ലെങ്കിൽ പവർ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് ഇല്ലാത്തതുമായ ഒരു ആന്റിന ആണ് പക്ഷേ നിങ്ങൾക്ക് ഉയർന്ന പവർ ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഒരു വിധം വലിയ പവർ ഇല്ലാത്തപ്പോൾ ഉദാഹരണത്തിന് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ വ്യക്തിഗതമായ ആശയവിനിമയവുമായി ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ നമ്മൾ മൈക്രോ സ്ട്രിപ് ആൻറിന ഉപയോഗിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ജനപ്രിയമാർന്നതും അവ വളരെ പ്രയോജനം ഉള്ളവയുമാണ് അതുകൊണ്ടാണ് മൈക്രോസ്ട്രിപ്പ് ആൻറിന ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രകടനം വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെ കാര്യക്ഷമത കുറഞ്ഞ മോശപ്പെട്ട ഒരു ആൻറിന ആണ് പക്ഷേ നമ്മൾ ഇത് കാണാൻ പോവുകയാണ് നിങ്ങൾ ഈ മൈക്രോസ്ട്രിപ്പ് ആൻറിന നോക്കുകയാണെങ്കിൽ മുകളിൽ ഉള്ള ഈ പാളിയെ പാച്ച് എന്നു വിളിക്കുന്നു ഇത് ലോഹമാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്രൌണ്ട് പ്രതലവും ഉണ്ട് ഈ രണ്ട് ലോഹാകൃതികൾക്കിടയിൽ നിങ്ങൾക്ക് ചില സബ്സ്ട്രേറ്റ് ഉണ്ട് അതാണ് ഡൈയിലക്ട്രിക് അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സ്ലോട്ട് ആണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇതിനെ റെക്ടാൻഗുലർ രീതിയിലുള്ള ഒരു അപ്പർച്ചർ ആയി പരിഗണിക്കാം ഇതൊരു അപ്പർച്ചർ ആണ് നമുക്ക് ഇതിനെ യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യാം ലളിതമായി ഇത് മുകളിലും താഴെയും ലോഹത്തിന്റെ മണ്ഡലവും അവയ്ക്കിടയിൽ ഡൈയിലക്ട്രിക് ആയിട്ടുള്ള പാരലൽ പ്ലേറ്റ് വേവ്ഗൈഡിന് സമാനമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് യാതൊരു വിധ പ്രസരണവും സംഭവിക്കുന്നില്ല കാരണം ഇതൊരു പാരലൽ പ്ലേറ്റ് വേവ്ഗൈഡാണ് ഇവിടെ മണ്ഡലങ്ങളിൽനിന്ന് പ്രസരണം സംഭവിക്കുന്നതിനുള്ള ഒരേയൊരു കാരണം ഈ പാരലൽ പ്ലേറ്റ് വേവ്ഗൈഡ് അപ്രതീക്ഷിതമായി ഇവിടെ തുറന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് അപ്പർച്ചർ ആണ് ഇത് ഇത് ഒരു അപ്പർച്ചർ ആണ് ആ വശത്ത് വേറെയൊരു അപ്പേർച്ചർ ഉണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ട് അപ്പേർച്ചറുകൾ ഉണ്ട് ഇത് ഒന്ന് ഇത് വേറൊന്ന് ഈ വേവ്ഗൈഡുകളുടെ അളവ് 1 അത് ബുദ്ധിപരമായി ലാംഡ g ഹരിക്കണം 2 എന്ന് ഇട്ടതാണ് λg എന്നത് ഗൈഡഡ് തരംഗദൈർഘ്യം ആണ് ആ ആശയം വേവ്ഗൈഡിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ λg ഹരിക്കണം 2 എന്ന് എടുക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഇവിടെ ഉള്ള മണ്ഡലങ്ങൾ അവയാണ് അതോടൊപ്പം ഇവിടെ അപ്പേർച്ചർ മണ്ഡലങ്ങൾ പരസ്പരം വിപരീതമായ ഫേസുകളിൽ ആണുള്ളത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു അപ്പർച്ചർ ഉണ്ടെന്നും അവ രണ്ട് എലമെന്റുകളുടെ ശ്രേണിക്ക് രൂപം കൊടുക്കുന്നു എന്നും അവിടെ എലമെന്റുകളുടെ ഇടയിലുള്ള അകലം λg ഹരിക്കണം 2 ആണെന്നും എനിക്ക് പരിഗണിക്കാം ഇത് എങ്ങനെ വിശകലനം ചെയ്യണം എന്ന് എനിക്ക് ഇപ്പോൾ അറിയാം ഈ ഓട്ട വളരെ ചെറുതായതിനാൽ ഇവിടെ ഇപ്പോഴുള്ള മണ്ഡലം എന്താണെന്ന് നമ്മൾക്ക് അനുമാനിക്കേണ്ടത് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു യൂണിഫോം ആയ മണ്ഡലത്തെ സങ്കൽപ്പിക്കാം ഇവിടെ കൂടിയും ഒരു യൂണിഫോം മണ്ഡലത്തെ സങ്കല്പ്പിക്കണം ഈ കാണിച്ചിരിക്കുന്നവയാണ് ഫീൽഡ് ലൈനുകൾ എന്ന് നിങ്ങൾക്ക് കാണാം അവ പരസ്പരം 180 ഡിഗ്രി വിപരീതദിശയിൽ ആണെന്ന് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് നമ്മൾ ഇന്നു കണ്ട നടപടിക്രമങ്ങളിലൂടെ ഇവയിൽ ഒന്നിന്റെ മണ്ഡലത്തെ നമ്മൾ കണ്ടു പിടിക്കും അതിനുശേഷം അതിനെ ഈ രണ്ട് എലമന്റുകളുടെ അറേ ഫാക്ടർ ഉപയോഗിച്ച് ഗുണിക്കും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന മുഴുവൻ വിശകലനം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ വിശകലനം ഇപ്പോൾ കാണും ഇതാണ് യഥാർത്ഥത്തിൽ വശങ്ങളിൽ നിന്നുള്ള ദൃശ്യം ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ആ ഫീൽഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണാൻ കഴിയും പക്ഷേ ഇത് വശങ്ങളിൽ നിന്നുള്ള ദൃശ്യം ആണ് ഇതിൻ്റെ മുൻപത്തെതിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ അതായത് ഈ ദിശയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ മുഴുവൻ പരിച്ഛേദത്തിന് അതായത് നിങ്ങൾ ഒരു പരിച്ഛേദം എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും ഇത് ഈ സമാനമായ മണ്ഡലം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇത് ഈ സ്ലോട്ടിൽ മുഴുവനായുള്ള ഒരു യൂണിഫോം മണ്ഡലമാണ് അതുകൊണ്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോഡിനേറ്റ് സിസ്റ്റം മുൻപ് നിങ്ങൾ കണ്ട ആദ്യത്തെ മൈക്രോയിലെ അതേ കോഡിനേറ്റ് തന്നെയാണ് ഇത് സ്ലോട്ട് ഇവിടെയാണ് സ്ലോട്ടിന് h കനവും w വീതിയുമുണ്ട് അതോടൊപ്പം അത് x z പ്രതലത്തിൽ ആണെന്ന് എനിക്ക് പറയുവാൻ കഴിയും സ്ലോട്ട് x z പ്രതലത്തിൽ ആണെന്ന് നിങ്ങൾ കണ്ടതാണ് അതിനു സദൃശ്യമായി h ഉം w ഉം ഇവിടെയാണ് ഇനി ഞാനൊരു കാര്യം സങ്കൽപ്പിക്കുകയാണ് അതായത് h എന്ന കനം വളരെ ചെറുതായതുകൊണ്ട് ഇത് നമ്മൾ പരിഗണിച്ച സ്ലോട്ട് പോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും ആ മണ്ഡലം യൂണിഫോം ആണെന്ന് അതുകൊണ്ട് ഇനിയിപ്പോൾ സ്ലോട്ട് ഫീൽഡ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം Ea x ദിശാഭിമുഖം ആണെന്ന് നമുക്ക് എഴുതാം കാരണം ഇവിടെ നിന്നും ഇത് x ദിശാഭിമുഖമായ ഒരു മണ്ഡലം ആണെന്ന് നിങ്ങൾ കണ്ടു അതിനർത്ഥം ഈ വശത്തുള്ള ഫീൽഡ് ലൈനുകൾ നമ്മുടെ അപ്പർച്ചർ പോലെ ഒരു സ്ലോട്ട് ആൻറിന Eo പോലെ ആണ് ഉള്ളത് ഈ സ്ലോട്ട് ഗ്രൌണ്ട് പ്രതലം പിന്തുണക്കുന്നത് കൊണ്ട് ഇക്വിവാലൻസ് സിദ്ധാന്തം ഉപയോഗിച്ച് പറയാൻ കഴിയും മൈനസ് h ഹരിക്കണം 2 ലെസ്സ് ദാൻ x ലെസ്സ് ദാൻ പ്ലസ് h ഹരിക്കണം 2 ഉം മൈനസ് w ഹരിക്കണം 2 ലെസ്സ് ദാൻ z ലെസ്സ് ദാൻ പ്ലസ് w ഹരിക്കണം 2 എന്ന് അതുകൊണ്ട് അവിടെ Js പൂജ്യമായിരിക്കും അതുപോലെ Ms മൈനസ് 2n ക്രോസ് Ea ആയിരിക്കും അത് മൈനസ് 2 ay ആയിരിക്കും ഇവിടെ നിങ്ങൾ കണ്ടു n എന്താണെന്നുവെച്ചാൽ ay ക്രോസ് Ea അത് ax E0 ആണെന്ന് അതിൻറെ പരിധി മൈനസ് h ഹരിക്കണം 2 z w ഹരിക്കണം 2 അതുകൊണ്ട് ഇത് az 2E0 യും മറ്റുള്ളിടത്ത് 0 വും ആയിരിക്കും Js പൂജ്യമാണ് ഇതേ നടപടിക്രമം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫീൽഡിനെ Er Eθ എന്ന് എഴുതാം എന്ന് നിങ്ങൾ കണ്ടു അത് ഏകദേശം പൂജ്യമായിരിക്കും എന്നും നിങ്ങൾ കണ്ടു ഒപ്പം Eφ നിലനിൽക്കുമെന്നും അത് മൈനസ് j h w k E0 e പവർ മൈനസ് j kr ഹരിക്കണം പൈ r ആണെന്നും എന്നിട്ട് സൈൻ തീറ്റ സൈൻ X ഹരിക്കണം X സൈൻ Z ഹരിക്കണം Z എന്നും അറേ ഫാക്ടർ കോസ് kl ഹരിക്കണം 2 സൈൻ തീറ്റ സൈൻ ഫൈ എന്നും നിങ്ങൾ കണ്ടു ഇത് നിങ്ങൾ ഇതിൽ നിന്ന് പരിശോധിക്കുക ഇതിനെ ഞാൻ അറേ ഫാക്ടർ എന്ന് പറയും ഇതാണ് എലമെൻറ് ഫാക്ടർ എന്താണ് X X എന്നത് kh ഹരിക്കണം 2 സൈൻ തീറ്റ കോസ് ഫൈയും Z എന്നത് kw ഹരിക്കണം 2 കോസ് തീറ്റയും ആണ് സാധാരണയായി സബ്സ്ട്രേറ്റിന്റെ കനം h വളരെ ചെറുതാണ് അതുകൊണ്ട് നമുക്ക് അതുണ്ടെങ്കിൽ അതായത് h ലാംഡായെക്കാളും വളരെ ചെറുതാണെങ്കിൽ Eφ എന്നത് മൈനസ് j 2V0 e പവർ മൈനസ് j kr ഹരിക്കണം പൈ r സൈൻ തീറ്റ സൈൻ kw ഹരിക്കണം 2 കോസ് തീറ്റ ഹരിക്കണം കോസ് തീറ്റ kl ഹരിക്കണം 2 സൈൻ തീറ്റ സൈൻ ഫൈയുടെ കോസ് ആങ്കിൾ ഇവിടെ ഞാൻ V0 നെ അവതരിപ്പിക്കുന്നു ഇത് സ്ലോട്ടിന് കുറുകെയുള്ള വോൾട്ടേജ് ആണ് വോൾട്ടേജ് എന്നത് എനിക്കറിയുന്നത് പോലെ e മണ്ഡലത്തെ കനം കൊണ്ട് ഗുണിക്കുന്നതാണ് അതായത് h ഗുണം E0 ആണ് V0 ഇതാണ് സ്ലോട്ടിന് കുറുകെയുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് Eφ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് Hθ ഉണ്ടാക്കാം ഇനി നിങ്ങൾക്ക് പ്രസരിപ്പിക്കപ്പെട്ട പവർ മുതലായവ കണ്ടുപിടിക്കാം അതിൽനിന്നും വികിരണം ചെയ്യപ്പെടണമെങ്കിൽ അതിന് ഒരു റേഡിയേഷൻ റെസിസ്റ്റൻസ് ആവശ്യമുണ്ട് സാധാരണയായി സ്ലോട്ട് ഉപയോഗിക്കുന്നവർ ഈ മൈക്രോസ്ട്രിപ്പ് ആൻറിന ഉപയോഗിക്കുന്നവർ അതിനെ ആ കണ്ടക്ടൻസിൻ്റെ വ്യുൽക്രമം എന്നാണ് വിളിക്കാറ് അപ്പോൾ എന്താണ് കണ്ടക്ടൻസ് അത് Prad അല്ലെങ്കിൽ Pr ഗുണിക്കണം 2 ഹരിക്കണം V0 വർഗ്ഗം ആണ് നിങ്ങൾക്ക് മണ്ഡലത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് Pr കണ്ടുപിടിക്കാൻ കഴിയുകയും അതുവഴി കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ കഴിയുകയും ചെയ്യും ഞാൻ നിങ്ങളെ ഗ്രാഫുകൾ കാണിക്കട്ടെ നിങ്ങൾ ഈ ഗ്രാഫ് കാണു ഇത് സ്ലോട്ട് കണ്ടക്ടൻസിനെ സ്ലോട്ടിൻ്റെ വീതിയുടെ ഫംങ്ഷനായി കാണിച്ചിരിക്കുന്ന ഗ്രാഫ് ആണ് വീതികൂടിയ സ്ലോട്ടിന് അതായത് നമുക്ക് w വളരെ വലുതാണെങ്കിൽ ഉദാഹരണത്തിന് w സമം 10 ലാംഡാ എന്ന് എടുക്കുകയാണെങ്കിൽ ആ അവസ്ഥയിൽ കണ്ടക്ടൻസ് ഏതാണ്ട് 0 5 ആണ് അതുകൊണ്ട് റേഡിയേഷൻ റെസിസ്റ്റൻസ് 2 ആയിരിക്കും അതേസമയം നമുക്ക് ചെറിയ സ്ലോട്ട് ആണ് ഉള്ളതെങ്കിൽ കണ്ടക്ടൻസ് വളരെ ചെറുതായിരിക്കും അത് ഏതാണ്ട് 10 പവർ മൈനസ് 4 അല്ലെങ്കിൽ 10 പവർ മൈനസ് 6 എന്ന് നിങ്ങൾക്ക് പറയാം ഉദാഹരണത്തിന് w ഹരിക്കണം ലാംഡാ 0 1 ആണെങ്കിൽ ആ അവസ്ഥയിൽ കണ്ടക്ടൻസ് 10 പവർ മൈനസ് 4 ആയിരിക്കും അപ്പോൾ റേഡിയേഷൻ റെസിസ്റ്റൻസ് 10 പവർ 4 ഓം എന്ന വലിയ വില ആയിരിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് അതായത് ലളിതമായ ആൻറിനകളിൽ കണ്ടതുപോലെ ഇവിടെ റേഡിയേഷൻ റെസിസ്റ്റൻസും ലോസ്സ് റെസിസ്റ്റൻസും ശരിക്കും ഒരു നിരയിൽ അല്ലായിരുന്നു അതിനു കാരണം ഇവിടെ അടുത്തായി ഒരു ഗ്രൌണ്ട് പ്രതലം അല്ലെങ്കിൽ ലോസ്സി പ്രതലമുണ്ട് പക്ഷേ എന്നിട്ടും ഇപ്പോഴും അത് ചെറിയ വീതി കാണിക്കുന്നു കാരണം സ്ലോട്ട് കുറഞ്ഞ വീതിയിൽ ഉള്ളതാണെങ്കിൽ ഒരു വിധം വലിയ പ്രസരണം സംഭവിക്കും പക്ഷേ വീതി കുറച്ച് വലുതാണെങ്കിൽ പ്രസരണം വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് ആളുകൾ വീതി സാമാന്യം കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് സാമാന്യം നല്ല പ്രസരണം കിട്ടും നിങ്ങൾ കാണുന്നതുപോലെ ഇപ്പോൾ ആളുകൾ വ്യത്യസ്തമായ സൂത്രവാക്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വീതി a യെക്കാളും വലുതും ലാംഡായെക്കാളും ചെറുതുമാണ് G എന്നത് 1 ഹരിക്കണം 90 w ഹരിക്കണം ലാംഡാ വർഗ്ഗം എന്നതിൻ്റെ ക്രമത്തിൽ ആയിരിക്കും വേറൊരു വിധത്തിൽ നിങ്ങൾക്ക് വീതി കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ G എന്നത് 1 ഹരിക്കണം 120 w ഹരിക്കണം ലാംഡാ ആയിരിക്കും ഈ സമയം ഇതിൻറെ വർഗ്ഗം എടുക്കുന്നില്ല അതിനു കാരണമായ റിയാക്ടീവ് പാർട്ട് എന്താണെന്ന് കുറെക്കൂടി പുരോഗമിച്ച കാര്യങ്ങൾ വഴി ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഓരോ സ്ലോട്ടിൽ നിന്നും വരുന്ന ഡയറക്റ്റിവിറ്റി എന്നത് എന്താണെന്ന് വെച്ചാൽ അത് 4 പൈ ഗുണിക്കണം ആ dP ഹരിക്കണം d ഒമേഗാ മാക്സ് ഹരിക്കണം Pr ആണ് അതുവഴിയായി 2 പൈ w ഹരിക്കണം ലാംഡാ വർഗ്ഗം ഗുണിക്കണം 1 ഹരിക്കണം I ആണെന്ന് ആളുകൾ കണ്ടുപിടിച്ചു ഇവിടെ I എന്നത് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ചില പദങ്ങളെ നിർവചിക്കുന്നു I എന്നത് 0 മുതൽ പൈ വരെ സൈൻ kw ഹരിക്കണം 2 കോസ് തീറ്റ ഹരിക്കണം കോസ് തീറ്റ വർഗ്ഗം സൈൻ ത്രിവർഗ്ഗം തീറ്റ dതീറ്റ ആണ് സൈൻ ത്രിവർഗ്ഗം തീറ്റ dതീറ്റ ആണ് നിങ്ങൾക്ക് വീണ്ടും w ലാംഡായെക്കാളും ചെറുതാണെങ്കിൽ ഇത് അത് ആയിട്ട് സംഗ്രഹിച്ച് എഴുതാം അപ്പോൾ D എന്നത് ഏതാണ്ട് 3 ആണ് അതിനർത്ഥം 3 എന്നുവച്ചാൽ 4 77dB ആണ് ഇനി w ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ അപ്പോൾ D എന്നത് ഏകദേശം 4 ഗുണിക്കണം w ഹരിക്കണം ലാംഡാ ആയിരിക്കും അതുകൊണ്ട് w കൂടുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടുന്നു പക്ഷേ അപ്പോൾ നിങ്ങളുടെ കണ്ടക്ടൻസ് ചെറുതാകുന്നു അതുകാരണം നിങ്ങളുടെ റേഡിയേഷൻ റെസിസ്റ്റൻസും ചെറുതായിരിക്കും ഈ ദ്വൈതാവസ്ഥ ഇത് നല്ല ഒരു ആൻറിന അല്ല എന്ന് കാണിക്കുന്നു പക്ഷേ അവിടെ ആവശ്യത്തിനുള്ള ഉള്ള പവർ ലഭ്യമായതിനാൽ നിങ്ങൾക്ക് ഇത് ഒരു ആന്റിന ആയി ഉപയോഗിക്കാം ഈ മൈക്രോസ്ട്രിപ്പ് ആൻറിനകളുടെ മറ്റൊരു വലിയ പരിമിതി അവയുടെ ആവൃത്തി ബാൻഡ് വിത്ത് വളരെ ഇടുങ്ങിയതാണ് എന്നുള്ളതാണ് പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനുകളുടെ സവിശേഷതകളാണ് പ്രാഥമികമായി ബാൻഡ് വിഡ്ത്തിനെ നിയന്ത്രിക്കുന്നത് ഇത് വളരെ ചെറിയൊരു അളവാണ് അതുകൊണ്ടാണ് ഇത് അധികം അല്ലാത്തത് വ്യത്യസ്ത മാർഗങ്ങൾ ആയ ഉയർന്ന ഡൈയിലക്ട്രിക് സ്ഥിരാങ്കം ഉള്ള സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ സബ്സ്ട്രൈറ്റിന്റെ കനം കൂട്ടുക അതുമല്ലെങ്കിൽ ദ്വാരങ്ങളോ സ്ലോട്ടുകളോ നിർമ്മിക്കുക അതുമല്ലെങ്കിൽ റിയാക്ടീവ് കമ്പോണന്റുകൾ കൂട്ടിച്ചേർക്കുക തുടങ്ങിയവ ആളുകൾ ഉപയോഗിക്കുന്നു ഈ വ്യത്യസ്ത മാർഗങ്ങൾ വഴി ആളുകൾ പല കാര്യങ്ങളും മെച്ചപ്പെട്ടതും കൂടുതൽ മെച്ചപ്പെട്ടതും ആക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശകലനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അത് ഈ മൈക്രോസ്ട്രിപ്പ് ആൻറിനകളുടെ കാര്യത്തിൽ ആണെങ്കിൽ പോലും ഈ സാമാന്യവൽക്കരിച്ച രീതി നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഇതോടുകൂടി ഈ അപ്പർച്ചർ ആൻറിനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ഉപസംഹരിക്കുകയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വേറെ ചില കാര്യങ്ങളാണ് പ്രത്യേകമായി ഏതൊരു ആന്റിനയുടെയും വ്യത്യസ്തമായ സവിശേഷതകളുടെ അളവെടുക്കൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എല്ലായിപ്പോഴും നമുക്ക് എല്ലാ ആൻറിനകളും ഉപയോഗിച്ച് വിശകലനം ചെയ്യുവാൻ സാധിക്കുകയില്ല പലപ്പോഴും കാണപ്പെടാറുള്ളത് ആദ്യം ആൻറിനയെ കണ്ടു പിടിച്ചതിനു ശേഷം അതിൻറെ വിശകലനം വരുന്നതായിട്ടാണ് നിങ്ങൾ പലപ്പോഴും കാണും അല്ലെങ്കിൽ എനിക്ക് പറയുവാൻ കഴിയും യഥാർത്ഥത്തിൽ ആൻറിനയുടെ ഈ കാര്യങ്ങളിൽ ധാരാളം കലാവാസനയും ഉൾക്കൊള്ളുന്നുണ്ട് അനുഭവസമ്പത്ത് ഉള്ള ആളുകൾക്ക് വിശകലനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ആന്റിനകൾ രൂപകൽപ്പന ചെയ്യുവാൻ കഴിയും കാരണം അവരുടെ അനുഭവസമ്പത്ത് ഉപയോഗിച്ച് ഇത് എങ്ങനെ പ്രസരിപ്പിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് ആൻറിന രൂപകൽപന എന്നത് ഒരേസമയം കലയും അതേസമയം ശാസ്ത്രവുമാണ് അതിൽ നമ്മൾ ശാസ്ത്രീയമായ വശമാണ് പറയുവാൻ ശ്രമിക്കുന്നത് അതേസമയം ധാരാളം കലാപരമായ വശങ്ങൾ കൂടി അതിൽ ഉണ്ട് പക്ഷേ അവ ഇതുപോലെ പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിയുകയില്ല പക്ഷേ അനുഭവസ്ഥർ ആയിട്ടുള്ള ആളുകൾക്ക് അവ സ്വാഭാവികമായി കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഇത് എല്ലായ്പ്പോഴും വിശകലനം ചെയ്യാവുന്ന ഒന്ന് അല്ലാത്തതും ആളുകൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട മാതൃകകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അത് എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അളവുകൾ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് ആൻറിന രൂപകല്പനയിൽ നിർവഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലായിപ്പോഴും ഈ കാര്യങ്ങൾ അതായത് എന്താണ് ഡയറക്ടിവിറ്റി എന്താണ് ബീം വിഡ്ത്ത് എന്താണ് റേഡിയേഷൻ പാറ്റേൺ മുതലായവ ഈ രീതിയിൽ കണ്ടുപിടിക്കുവാൻ കഴിയുമെന്ന് കാരണം ആത്യന്തികമായി ഈ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് അവ എങ്ങനെ ചെയ്യും ഹ്രസ്വമായി നമ്മളത് പരാമർശിക്കുകയും അതോടൊപ്പം എൻറെ അറേ ആന്റിനകളിൽ ഉള്ള ഏതാനും ചില പുതിയ ആൻറിനകൾ നമ്മൾ കാണുകയും ചെയ്യും അറേ ആൻറിന പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു ലോഗ് പീരിയോഡിക് ആൻറിന ഉണ്ട് അത് ഒരു ബ്രോഡ്ബാൻഡ് ആൻറിനയാണ് പക്ഷേ ചിതറിക്കുന്ന സ്വഭാവമാണ് ഇതിനുള്ളത് എങ്ങനെ അത് പരിഹരിച്ച് യഥാർത്ഥത്തിൽ ഒരു വൈഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് ആൻറിന എങ്ങനെ നിർമ്മിക്കാം എന്നത് നമുക്ക് കാണാം അടിസ്ഥാനപരമായി ഇംപൾസ് പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള ആൻറിന ഒരു ദിവസം നമ്മൾ കാണും അതുപോലത്തെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണും അതോടൊപ്പം ആൻറിനയെ വിശകലനം ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഏകദേശം നമ്മൾ കണ്ടുകഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ തീർച്ചയായും ഏതു എൻജിനീയറിങ് ശാഖകളിലും ഈ വിശകലനം കുറെകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുവാൻ കഴിയുന്ന ഏതാനും ചില വിദ്യകൾ കൂടി ഉണ്ടായിരിക്കും ആൻറിന എൻജിനീയറിംഗിന്റെ ഉയർന്ന പാഠ്യക്രമം എന്നത് ഏതാണ്ട് ചില ഇന്റഗ്രേഷനുകൾ ന്യൂമെറിക്കലി എങ്ങനെ കണ്ടുപിടിക്കാം അനലിറ്റിക് ഇന്റഗ്രേഷൻ ബുദ്ധിമുട്ടുള്ളതായി തീരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന എൻജിനീയറിങ് വിദ്യ പോലെയാണ് പക്ഷേ നിങ്ങൾക്ക് ധാരാളം തെളിവാർന്ന പ്രായോഗിക പരിജ്ഞാനം കിട്ടേണ്ടതുണ്ട് അതുവഴിയായി നിങ്ങൾക്ക് ലളിതമായ ആൻറിനകൾ വിശകലനം ചെയ്യുന്നത് ആരംഭിക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് സ്വയം ആൻറിന രൂപകല്പന ചെയ്യുന്നത് തുടങ്ങുവാൻ സാധിക്കും തീർച്ചയായും അനുഭവസമ്പത്തിന്റെ സഹായത്താൽ നിങ്ങളുടെ ആരംഭദശയിൽ നിങ്ങൾ വരുത്തിയ തെറ്റുകൾ നിങ്ങൾ തിരുത്തുകയും ചെയ്യും പക്ഷേ ആൻറിനയുടെ രൂപകല്പന അതല്ലെങ്കിൽ വിശകലനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ മേഖലകളിലേക്ക് നിങ്ങൾക്ക് നല്ല ഒരു തുടക്കം ഇത് സമ്മാനിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു